മിക് പ്രിൻസിപ്പിൾസ് ഓഫ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി തുടരുന്നു ഹലോ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി സംവിധാനത്തിന്റെ രൂപകൽപ്പനയ്ക്കും ആസൂത്രണത്തിനും തെർമോഡൈനാമിക് തത്വങ്ങൾ അനിവാര്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിനാൽ നമ്മൾ തെർമോഡൈനാമിക് തത്വങ്ങളുടെ ചില പുനർവിചിന്തനം ആരംഭിച്ചു ഇതിൽ തെർമോഡൈനാമിക് തത്വങ്ങളും തെർമോഡൈനാമിക്സും വിശദമായി നോക്കുന്നില്ല മറിച്ച് തെർമോഡൈനാമിക്സിന്റെ പ്രധാന നിയമങ്ങൾ തെർമോഡൈനാമിക്സിന്റെ തത്വങ്ങൾ എന്നിവയെ ഊന്നിപ്പറയുകയും അവ വേസ്റ്റ് ഹീറ്റ് റിക്കവറി തത്വവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അതിനാൽ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു അത് വേഗത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യത്തെ തെർമോഡൈനാമിക്സ് നിയമം ആദ്യം നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റത്തിനായി തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതാം ക്ലോസ്ഡ് സിസ്റ്റത്തിന് പിണ്ഡം സ്ഥിരമാണ് സിസ്റ്റത്തിന്റെ പിണ്ഡം സ്ഥിരമാണ് കാരണം ഒരു പിണ്ഡത്തിന് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പിണ്ഡത്തിനും സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോകാൻ കഴിയില്ല തുടർന്ന് ഒരു സൈക്ലിക് പ്രക്രിയയ്ക്കായി നമുക്ക് എഴുതാം ∮ δQ ∮ δW Q എന്നത് ചൂടും W എന്നത് വർക്കും ആണ് നമ്മൾ ഒരു പ്രക്രിയ എടുക്കുകയാണെങ്കിൽ ഒരു സൈക്ലിക് പ്രക്രിയയല്ല ഡിഫറൻഷ്യൽ രൂപത്തിൽ ഒരൊറ്റ പ്രക്രിയയ്ക്ക് നമുക്ക്δQ dU δW എന്ന് എഴുതാം അവിടെ U ഞാൻ പറഞ്ഞു ഇൻ്റേണൽ എനർജി ഇത് ഡിഫറൻഷ്യൽ രൂപത്തിലാണ് 1 മുതൽ 2 വരെയുള്ള സ്റ്റേറ്റ് മാറ്റം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1Q2 1W2 എഴുതാം അതിനാൽ ഇവിടെ നിങ്ങൾ വ്യത്യാസം കാണുന്നു ഇവിടെ 1Q2 എന്ന് എഴുതിയിട്ടുണ്ട് സിസ്റ്റം സ്റ്റേറ്റ് 1 ൽ നിന്ന് സ്റ്റേറ്റ് 2 ലേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന താപ കൈമാറ്റം ആണ് അത് അതുപോലെ തന്നെ 1W2 എന്നത് സിസ്റ്റം സ്റ്റേറ്റ് 1 മുതൽ 2 വരെ മാറുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ട്രാൻസ്ഫർ ആണ് അത് U2 എന്നത് സ്റ്റേറ്റ് 2 ലെ ഇൻ്റേണൽ എനർജി ആണ് U1 എന്നത് സ്റ്റേറ്റ് 1 ലെ ഇൻ്റേണൽ എനർജി ആണ് അതിനാൽ ഇൻ്റേണൽ എനർജി ഒരു പ്രോപ്പർട്ടി ആയതിനാൽ സ്റ്റേറ്റ് 1 നും 2 നും ഇടയിൽ നടക്കുന്ന ഒരു പ്രക്രിയയ്ക്കായി നമുക്ക് എഴുതാം എന്നാൽ Q ഉം W ഉം പാത്ത് ഫംഗ്ഷനാണ് നമുക്ക് 1Q 2 ഉം 1W2 ഉം എന്ന് എഴുതണം അതിനാൽ ഈ പ്രത്യേക സമവാക്യം 1 മുതൽ 2 വരെയുള്ള സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിലുള്ള ഒരു പ്രക്രിയയാണ് അതിനാൽ നമുക്ക് ഒരു യൂണിറ്റ് പിണ്ഡത്തിന് 1q2 1w2 എന്ന് എഴുതാം ഇവിടെ q w എന്നിവ ചെറിയ അക്ഷരങ്ങളാണ് ഒരു യൂണിറ്റ് പിണ്ഡത്തിന് താപ കൈമാറ്റത്തിന്റെ അളവും ഒരു യൂണിറ്റ് പിണ്ഡത്തിന് വർക്ക് കൈമാറ്റത്തിന്റെ അളവും അത് സൂചിപ്പിക്കുന്നു അതേസമയം u2 എന്നത് ഒരു യൂണിറ്റ് പിണ്ഡത്തിന് സ്റ്റേറ്റ് 2 വിൽ ഉള്ള ഇൻ്റേണൽ എനർജി ആണ് കൂടാതെ u1 എന്നത് യൂണിറ്റ് പിണ്ടത്തിന് സ്റ്റേറ്റ് 1 ഇൽ ഉള്ള ഇൻ്റേണൽ എനർജി ആണ് ഇത് ക്ലോസ്ഡ് സിസ്റ്റ്ത്തിനായുള്ളതാണ് ഇപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിനായി നമ്മൾ ഈ സമവാക്യം എഴുതിയിട്ടുണ്ട് ഓപ്പൺ സിസ്റ്റ്ത്തിനായി ഉള്ള ആദ്യ നിയമം സ്റ്റെഡി സ്റ്റേറ്റ് സ്റ്റെഡി ഫ്ലോക്ക് വേണ്ടി എന്ന് എഴുതട്ടെ മിക്ക വ്യാവസായിക സാഹചര്യങ്ങളിലും ഏറ്റവും സാധാരണമായ സംഭവമായ സ്റ്റെഡി സ്റ്റേറ്റും സ്റ്റെഡി ഫ്ലോയും ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാലത്തിനനുസരിച്ച് ഒഴുക്കിൽ മാറ്റമുണ്ടാകുന്നതും കാലത്തിനനുസരിച്ച് സ്റ്റേറ്റിൽ മാറ്റമുണ്ടാകുന്നതുമായ സാഹചര്യവും ഉണ്ട് എന്നാൽ പൊതുവേ വ്യവസായത്തിന്റെ ഭൂരിഭാഗവും സിസ്റ്റങ്ങൾ സ്റ്റെഡി സ്റ്റേറ്റിൽ ആണ് പ്രവർത്തിക്കുന്നത് സ്റ്റെഡി സ്റ്റേറ്റിൽ വിശകലനം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ സ്റ്റെഡി സ്റ്റേറ്റിനായുള്ള സമവാക്യം എഴുതുകയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം ṁ he Ve22 gZe ṁ hi Vi22 gZi Q̇ − Ẇ ഓരോ പദവും ഞാൻ വിശദീകരിക്കാം ഇടത് വശത്ത് കൺട്രോൾ വോളിയം എന്നറിയപ്പെടുന്ന ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സിറ്റിൽ ഉള്ള ഊർജ്ജമാണ് വലത് വശത്ത് ആദ്യ പദം കൺട്രോൾ വോളിയം ഹ്രസ്വമായി പറഞാൽ സിവി അതിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള ഊർജ്ജമാണ് രണ്ടാമത്തെ പദം സിവിയിലേക്കുള്ള താപ കൈമാറ്റവും മൂന്നാം ടേം സിവി ചെയ്യുന്ന വർക്കും ആണ് അതിനാൽ നമ്മൾക്ക് ഒരുതരം ഊർജ്ജ സന്തുലിതാവസ്ഥ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അടിസ്ഥാനപരമായി ഇത് ഒരു നിരക്ക് സമവാക്യമാണ് അതിൽ ഒരു ബാലൻസ് ലഭിക്കുന്നുണ്ട് ഇടത് വശത്ത് ഓപ്പൺ സിസ്റ്റത്തിൻ്റെ എക്സിറ്റിൽ ഉള്ള എനർജിയും വലതു വശത്ത് കൺട്രോൾ വോളിയം അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിന്റെ ഇൻലെറ്റ് എനർജി കൺട്രോൾ വോള്യത്തിലേക്കുള്ള താപ കൈമാറ്റ നിരക്ക് കൺട്രോൾ വോളിയം ചെയ്യുന്ന വർക്കിൻ്റെ നിരക്ക് എന്നിവയ്ക്ക് തുല്യമാണ് അതിനാൽ ഒരു ഓപ്പൺ സിസ്റ്റത്തിന് അല്ലെങ്കിൽ കൺട്രോൾ വോളിയത്തിനോ ഒരാൾക്ക് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം ഇങ്ങനെ പ്രകടിപ്പിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെടി സ്റ്റേറ്റ് പ്രവർത്തനം ആണ് പരിഗണിക്കുന്നത് നമ്മൾ ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും മാത്രമാണ് പരിഗണിക്കുന്നത് ഒരു വാതിലിൽ കൂടെ പിണ്ഡം കൺട്രോൾ വോളിയത്തിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ പിണ്ഡം ഒരൊറ്റ വാതിലിലൂടെ കൺട്രോൾ വോളിയം വിടുന്നു പദങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു h നെ എൻതാൽപ്പി എന്ന് വിളിക്കുന്നു ഞാൻ ഇതിനകം അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഇത് സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് h1 ന് h1 u pv എന്ന് എഴുതാൻ കഴിയും ഇവിടെ u ഇൻ്റേണൽ എനർജി p എന്നത് മർദ്ദവും v എന്നത് സ്പെസിഫിക് വോളിയവുമാണ് അതിനാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിൽ നിന്ന് എന്താണ് ലഭിച്ചതെന്ന് നോക്കാം അടിസ്ഥാനപരമായി അത് ചിലത് നൽകുന്നു അത് ഊർജ്ജ സംരക്ഷണ തത്വമാണ് അത് ഊർജ്ജത്തെ എങ്ങനെ വിവിധ രൂപങ്ങളായി പരിവർത്തനം ചെയ്യാമെന്നും അത് ആത്യന്തികമായി സ്ഥാപിക്കപ്പെടുന്നതോ നിലനിർത്തുന്നതോ ആയ ഊർജ്ജസംരക്ഷണത്തെ കാണിക്കുന്നു കൂടാതെ ഇത് എൻതാൽപ്പി എന്നറിയപ്പെടുന്ന സിസ്റ്റത്തിന്റെ ഒരു പുതിയ പ്രോപ്പർട്ടി അവതരിപ്പിക്കുന്നു h u pv ആണ് അത് അതിനാൽ ഏതൊരു സിസ്റ്റത്തിന്റെയും ഊർജ്ജ വിശകലനത്തിനായി തെർമോഡൈനാമിക്സിലെ ആദ്യ നിയമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് പ്രത്യേകിച്ചും വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് ആദ്യ നിയമം വളരെ പ്രാധാന്യമർഹിക്കുന്നു കാരണം ഇത് പ്രകൃതിയുടെ തത്വമാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഒരു ലംഘനവും ഉണ്ടാകില്ല അതിനാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റ് ഹീറ്റ് റിക്കവറി സംവിധാനം വിശകലനം ചെയ്യാൻ കഴിയും ഇത് വിശദീകരിക്കാൻ നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുക്കും ഇപ്പോൾ ഒരു ഇൻലെറ്റിനും ഒരു എക്സിറ്റിനുമുള്ള സമവാക്യം നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഒന്നിലധികം ഇൻലെറ്റും ഒന്നിലധികം എക്സിറ്റും ഉള്ള സിസ്റ്റം ഉണ്ടായിരിക്കാം വേസ്റ്റ് ഹീറ്റ് റിക്കവറിയിൽ ഒന്നിലധികം എക്സിറ്റും എൻട്രിയും ഉള്ള സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ വോളിയം കാണാം അതിനാൽ നമ്മൾ ഒരു ഇക്കണോമൈസർ പരിഗണിക്കാം അപ്പോൾ എന്താണ് ഇക്കണോമൈസർ ജ്വലനത്തിന്റെ ചൂടുള്ള ഉൽപന്നമാണ് ഈ കുഴലിലൂടെ കടന്നുപോകുന്ന ഫ്ലൂ വാതകം ഇത് ഫ്ലൂ ഗ്യാസ് പാതയുടെ ഭാഗമാണെന്ന് ഒരാൾക്ക് ചിന്തിക്കാം ഒരുപക്ഷേ ഈ ഡെക്കിന് മുമ്പ് നമുക്ക് ഫ്ലൂ ഗ്യാസ് പാതയുടെ ഈ ഭാഗം ലഭിക്കുകയും ചൂട് വാതകം ഇതിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നിശ്ചിത അളവിൽ താപോർജ്ജം പുറത്തെടുക്കുകയും ചെയ്യാം അത് ചെയ്യുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് വേർതിരിച്ചെടുക്കാനുള്ള ഒരു മാർഗ്ഗം താപ ഊർജ്ജം നമുക്ക് ഒരു കോയിൽ ഘടന ഉപയോഗിച്ച് എടുക്കാൻ കഴിയും അതിനാൽ ഇവിടെ തണുത്ത വെള്ളം പ്രവേശിക്കുന്നു ഈ കോയിലിൽ നിന്ന് വെള്ളം പുറത്തുവരുമ്പോൾ ഇത് ചൂടുവെള്ളമായിരിക്കും ജ്വലനത്തിന്റെ ചൂടായ ഉൽപന്നത്തിൽ നിന്നോ ചൂട് വാതകത്തിൽ നിന്നോ ചൂട് വേർതിരിച്ചെടുക്കുന്നതിനാൽ ജലത്തിന്റെ താപനില വർദ്ധിക്കും m ̇ai hai Vai22 gZai m ̇wi hwi Vw22 gZwi Q̇ Ẇ m ̇ae hae Vae22 gZae m ̇we hwe Vwe22 gZwe അതിനാൽ ഇത് ഫ്ലൂ ഗ്യാസ് പാത ആണെന്ന് എനിക്ക് എഴുതാം ഇത് ഇക്കണോമൈസർ കോയിൽ ഫ്ലൂയിഡ് ഒഴുകുന്ന ദിശ കാണിച്ചിട്ടുണ്ട് അതിനാൽ ഈ ഇക്കണോമൈസർ കോയിലിനായി എനിക്ക് ആദ്യത്തെ നിയമ വിശകലനം നടത്താൻ കഴിയും അതിനാൽ ഫ്ലൂ വാതകത്തിന്റെ പിണ്ഡം ṁai ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഫ്ലൂ വാതകത്തിന്റെ അതേ പിണ്ഡം ṁae പുറത്തേക്ക് പോകുന്നു ജലത്തിന്റെ പിണ്ഡം ṁw അകത്തേക്ക് വരുന്നുi അതേ പിണ്ഡം ṁwe പുറത്തേക്ക് വരുന്നു അതിനാൽ നമുക്ക് എങ്ങനെ എഴുതാനാകും മുമ്പത്തെ സമവാക്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് എഴുതാം m ̇ai hai Vai22 gZai m ̇wi hwi Vw22 gZwi Q̇ Ẇ m ̇ae hae Vae22 gZae m ̇we hwe Vwe22 gZwe അതിനാൽ നിങ്ങൾ കാണുന്നു ṁ അതാണ് മാസ് ഫ്ലോ റേറ്റ് h ആണ് എൻതാൽപ്പി V എന്നത് വെലോസിറ്റി Z എന്നത് ഡേറ്റം ലെവൽ ആണ് ഭൌതികശാസ്ത്രം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഈ സമവാക്യം ചെറുതായി ലളിതമാക്കാം നമുക്ക് ഇപ്പോൾ ഫ്ലൂ ഗ്യാസ് പാതകൾ പരിഗണിക്കാം അല്ലെങ്കിൽ ഡക്റ്റ് അത് നന്നായി ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു ഇത് നന്നായി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായോഗികമായി സിസ്റ്റത്തിൽ നിന്ന് സറൌണ്ടിങ്ങിലേക്കോ സറൌണ്ടിങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും താപ കൈമാറ്റം ഉണ്ടാകില്ല തീർച്ചയായും ഇത് പ്രായോഗികമായി ഒരു കാഴ്ച്ചപ്പാട് മാത്രമാണ് തീർച്ചയായും ഇത് ചൂടുള്ള വാതകമാണ് അതുകൊണ്ട് ഡക്റ്റ് ചൂടാക്കപ്പെടും അതിനാൽ ഇൻസുലേഷൻ എന്തുതന്നെയായാലും നിശ്ചിത അളവിൽ താപനഷ്ടം ഉണ്ടാകും പക്ഷേ വിശകലനത്തിനായി ഡക്റ്റിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപ കൈമാറ്റം ഇല്ലെന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ Q̇ അത് 0 ന് തുല്യമാണ് തുടർന്ന് ഗ്യാസ് സ്ട്രീം ഒരു വർക്കും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇക്കണോമൈസർ കോയിലിലൂടെ ഒഴുകുന്ന വെള്ളവം ഒരു വർക്കും ചെയ്യുന്നില്ല അതിനാൽ വർക്ക് 0 ന് തുല്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് രണ്ട് സ്ട്രീമുകൾക്കിടയിൽ ഒരുതരം ഊർജ്ജ തുല്യത ഉണ്ടാകും അതിനാൽ നമ്മുടെ സാമാന്യബുദ്ധിയിൽ നിന്ന് നമുക്ക് അറിയാം ചൂടുള്ള ഫ്ലൂ വാതകം പുറപ്പെടുവിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് എത്രയാണ് അത് വെള്ളം എടുക്കും നമുക്ക് വീണ്ടും കൂടുതൽ ലളിതമാക്കാനാകും എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ലളിതവൽക്കരണം നടത്താൻ കഴിയുക വായുവിന്റെ എൻതാൽപ്പിയും ജലത്തിന്റെ എൻതാൽപ്പിയും നമുക്ക് ചിന്തിക്കാം കൈനെറ്റിക് എനർജിയും പോട്ടെൻഷ്യൽ എനർജി പദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ വളരെ വലുതായിരിക്കും അതിനാൽ ലഘൂകരണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പദം പ്രധാന സമവാക്യത്തിൽ നിന്ന് ഇല്ലാതാക്കാം അത് ശ്രമിച്ചാൽ മുകളിലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് എഴുതാൻ കഴിയും അത് നന്നായി മനസ്സിലാക്കാൻ ദയവായി നോക്കുക അതിനാൽ ആദ്യത്തെ നിയമത്തിന്റെ പൊതുവായ സമവാക്യം രണ്ട് ഇൻലെറ്റുകളും രണ്ട് എക്സിറ്റും ഉള്ള ഒരു ഓപ്പൺ സിസ്റ്റത്തിനുള്ള ആദ്യ നിയമത്തിന്റെ പൊതുവായ ആവിഷ്കാരം മുതൽ നമ്മൾ ഈ ഊർജ്ജ വിനിമയ സമവാക്യം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മുടെ സാമാന്യബുദ്ധിക്ക് അനുസൃതമാണ് അതായത് ഫ്ലൂ ഗ്യാസ് പുറത്തുവിടുന്ന ചൂട് ഇക്കണോമൈസർ കോയിലിലൂടെ ഒഴുകുന്ന വെള്ളം വലിച്ചെടുക്കുംഅത് എൻതാൽപ്പിയിലെ മാറ്റം പിണ്ഡം കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ് എൻതാൽപ്പി കുറഞ്ഞു അതുകൊണ്ടാണ് ഇത് ഒരു പോസിറ്റീവ് പദം ആയത് ചൂടും സ്ട്രീം അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസ് സ്ട്രീം നിരസിക്കുന്നത് അതും ഒരു പോസിറ്റീവ് പദമായിരിക്കും അതുപോലെ ഇത് ജലപ്രവാഹം വലിച്ചെടുക്കുന്ന താപം താപ ഊർജ്ജം എന്നിവയ്ക്ക് തുല്യമായിരിക്കും അതിനാൽ അത് ജലധാരയുടെ പിണ്ഡത്തിനെ എൻതാൽപ്പിയിലെ മാറ്റത്താൽ ഗുണിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്താൽപ്പി എങ്ങനെ നിർണ്ണയിക്കും നിങ്ങളിൽ മിക്കവർക്കും ചില ആശയങ്ങൾ ഉണ്ടായിരിക്കാം എൻതാൽപ്പി എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ ഈ സാഹചര്യത്തിൽ തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് എന്തുചെയ്യാനാകുമെന്ന് നിങ്ങൾ കാണും ഫ്ലൂ ഗ്യാസിന്റെ ഇൻലെറ്റ് അവസ്ഥയും ഫ്ലൂ ഗ്യാസിന്റെ ഇൻലെറ്റിൽ ഉള്ള എൻതാൽപ്പിയും അറിയാമെന്ന് വിചാരിക്കുക ഫ്ലൂ ഗ്യാസിന്റെ ഔട്ട്ലെറ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം അതിനാൽ ഫ്ലൂ വാതകത്തിന്റെ എൻതാൽപ്പി മാറ്റം ഫ്ലൂ വാതകത്തിന്റെ പിൻഡ പ്രവാഹ നിരക്ക് എന്നിവയും നമുക്കറിയാം ജലപ്രവാഹത്തിന്റെ പിണ്ട പ്രവാഹ നിരക്ക് ജലത്തിന്റെ പ്രവേശന താപനില എന്നിവയും അറിയാം അതിനാൽ ജലത്തിന്റെ ഔട്ട്ലെറ്റ് താപനില നമുക്ക് നിർണ്ണയിക്കാനാകും അതിനാൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇക്കണോമൈസർ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ഫ്ലൂ ഗ്യാസ് ഊർജ്ജത്തിന്റെ ഒരു ഭാഗം ഉപയോഗിക്കാൻ കഴിയും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കാം ആദ്യ നിയമം ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ഊർജ്ജം പുറത്തെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഒരു ആഴത്തിലുള്ള വിശകലനം നടത്താൻ കഴിയും കോയിലിൻ്റെ വേഗതയും ജ്യാമിതിയും അറിഞ്ഞുകൊണ്ട് നമ്മൾ താപ കൈമാറ്റം ഉൾപ്പെടുത്തുമ്പോൾ ജലപ്രവാഹത്തിന്റെയും ഫ്ലൂ ഗ്യാസിന്റെയും ഇൻലെറ്റ് അവസ്ഥയും നമുക്കറിയാമെങ്കിൽ അവയുടെ പിന്ധ പ്രവാഹ നിരക്ക് നമുക്കറിയാമെങ്കിൽ താപ കൈമാറ്റത്തിന്റെ നിരക്ക് എന്തായിരിക്കുമെന്നും ജലപ്രവാഹത്തിനെ എത്രമാത്രം ചൂടാക്കാനാകുമെന്നും നമുക്ക് കണ്ടെത്താനാകും അതിനാൽ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം പ്രയോഗിക്കുന്നതിലൂടെ ഒരു വേസ്റ്റ് ഹീറ്റ് റിക്കവറി സംവിധാനം വിശകലനം ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്യുന്നതിനോ നമ്മൾ ഒരു പടി മുന്നോട്ട് പോയി വീണ്ടും നമ്മൾ താപ കൈമാറ്റ നിയമങ്ങൾ പ്രയോഗിച്ചാൽ നമ്മൾക്ക് കൂടുതൽ മികച്ച വിശകലനം നടത്താൻ കഴിയും നമ്മൾക്ക് ഇക്കോണമൈസർ കോയിലിന്റെ വലുപ്പം അളക്കാൻ കഴിയും അതിനാൽ തെർമോഡൈനാമിക്സും താപ കൈമാറ്റവും ഞാൻ മുൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇത് വളരെ പ്രധാനമാണ് അതിനാൽ വേസ്റ്റ് ഹീറ്റ് റിക്കവറി സംവിധാനം വിശകലനം ചെയ്യുന്നതിന് തെർമോഡൈനാമിക് തത്വങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഉപയോഗിച്ച് നമുക്ക് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിലേക്ക് പോകാം അതിനാൽ തെർമോഡൈനാമിക്സിലെ രണ്ടാമത്തെ നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകില്ല കാരണം ഇത് തെർമോഡൈനാമിക്സിന്റെ കോഴ്സിൽ പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിന്റെ പ്രധാന സവിശേഷത ഞാൻ പറയും നമുക്ക് ആദ്യം നോക്കാം രണ്ടാമത്തെ നിയമത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും എന്ന് ഊർജ്ജ പരിവർത്തനത്തിന്റെ ഒരു പ്രത്യേക പ്രക്രിയ ഉണ്ടാകുമ്പോൾ ഊർജ്ജ വിനിമയത്തിന്റെ അളവ് സംബന്ധിച്ച് ആദ്യ നിയമം നമുക്ക് ചില ആശയങ്ങൾ നൽകുന്നു രണ്ടാമത്തെ നിയമം യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ എന്തെങ്കിലും നൽകുന്നു ആദ്യ നിയമത്തിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ നിയമം നിരവധി സുപ്രധാന വിവരങ്ങൾ നൽകുന്നു അതിനാൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം ചർച്ചചെയ്യുന്നു ഇത് നമ്മൾക്ക് നിരവധി സുപ്രധാന വിവരങ്ങൾ നൽകും കൂടാതെ ഈ വിവരങ്ങളിൽ ഭൂരിഭാഗവും വേസ്റ്റ് ഹീറ്റ് റിക്കവറി സംവിധാനത്തിന്റെ രൂപകൽപ്പനയ്ക്കും വിശകലനത്തിനും നേരിട്ട് സഹായമാകും അതിനാൽ നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഒരു പ്രക്രിയയുടെ ദിശയാണ് അതിനാൽ പ്രകൃതിയിൽ സംഭവിക്കുന്നതും വ്യവസായത്തിൽ സംഭവിക്കുന്നതുമായ പ്രക്രിയകൾക്ക് ഒരു ദിശയുണ്ട് രണ്ടാമത്തെ നിയമം നമുക്ക് ഈ ദിശ നൽകും അതിനാൽ ഇത് പരിവർത്തനത്തിന്റെ പരിധി നൽകുന്നുവെന്നും പറയാം ഇത് എങ്ങനെയാണ് പരിവർത്തനത്തിന്റെ പരിധികൾ നൽകുന്നതെന്നതിന് ചെറിയ വിശദീകരണം ആവശ്യമാണ് അതിന് നമ്മൾ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് പറയാം അതിനാൽ നമ്മൾ വർക്കിൽ നിന്ന് ചൂടിലേക്ക് മാറ്റുന്നു തുടർന്ന് ചൂട് വീണ്ടും വർക്കിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ ഒരു നിശ്ചിത വർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് കൈമാറ്റം ഉണ്ടെങ്കിൽ എത്രമാത്രം വർക്ക് ചൂടാക്കി മാറ്റാം അതുപോലെ എത്രമാത്രം ചൂട് ഉപയോഗപ്രദമായ വർക്ക് ആക്കി മാറ്റാം അത് രണ്ടാമത്തെ നിയമത്തിൽ നിന്നും നമുക്ക് ലഭിക്കും പിന്നെ രണ്ടാമത്തെ നിയമം ഇറിവേഴ്സിബിലിറ്റി യെ കുറിച്ചുള്ള വിവരം നൽകുന്നു പ്രോസസ്സ് സമയത്ത് ഉള്ള ഊർജ്ജ പരിവർത്തനം മാത്രമേ ആദ്യ നിയമം പറയുന്നുള്ളൂ ഒരു പ്രൊസസ്സ് മറ്റെവിടെയും ഒരു മാറ്റവും സൃഷ്ടിക്കാതെ അതേ രീതിയിൽ തന്നെ പിന്നോക്ക ദിശയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിൽ പറയുന്നില്ല രണ്ടാമത്തെ നിയമമാണ് ഇത് പറയുന്നത് സറൌണ്ടിങ്ങിൽ ഒരു മാറ്റവും സൃഷ്ടിക്കാതെ തന്നെ ഒരു പ്രക്രിയ പഴയപടിയാക്കാനും സിസ്റ്റം അതിന്റെ പ്രാരംഭ സ്റ്റേറ്റിലേക്ക് തിരികെ കൊണ്ടുപോകാനും കഴിയുമോ എന്ന് രണ്ടാമത്തെ നിയമത്തിലാണ് പറയുന്നത് അതിനാൽ ഏതെങ്കിലും പ്രക്രിയയിൽ ഇറിവേഴ്സിബിലിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറ്റം വരുത്താതെ അത് തിരികെ കൊണ്ടുവരാനാകില്ല ഇത് റിവേഴ്സിബിൾ പ്രക്രിയയാണെങ്കിൽ മാത്രമേ തിരിച്ചുകൊണ്ടുവരാൻ കഴിയൂ അതിനാൽ ഒരു പ്രക്രിയയിൽ നിന്ന് നമുക്ക് എത്രമാത്രം പ്രതീക്ഷിക്കാനാകും എങ്ങനെയാണ് നമുക്ക് അടിസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുക ഇറിവേഴ്സിബിലിറ്റി കുറയ്ക്കുന്നതിലൂടെ ഒരു പ്രക്രിയയിൽ നിന്ന് എങ്ങനെ മികച്ചത് നേടാം എന്നിവ അറിയാൻ ഇത് വളരെ പ്രധാനമാണ് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിൽ നിന്ന് ഇത് സാധ്യമല്ല പക്ഷേ തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിൽ നിന്ന് ഇത് സാധ്യമാണ് ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമത്തിന്റെ വിവിധ വശങ്ങൾ തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് വിവരിക്കുന്നതിനിടയിലാണ് ഞാൻ അടുത്ത പ്രഭാഷണത്തിൽ രണ്ടാമത്തെ ആഴ്ചയിൽ നമുക്ക് അത് തുടരാം